ഒരു അൽഗോരിതത്തിന്റെ കാര്യക്ഷമത അളക്കുന്നത് അതിലെ അടിസ്ഥാന പ്രവർത്തനങ്ങളെ ആധാരമാക്കിയാണ് എന്ന് നമ്മൾ കണ്ടു അതുപോലെ റണ്ണിംഗ് ടൈം ഇൻപുട്ട് സൈസായ n അടിസ്ഥാനമാക്കി ഉള്ള ഒരു ഫങ്ക്ഷൻ ആയിരിക്കും നമ്മൾ കണക്കാക്കുക കൂടാതെ n സ്ക്വയറിൽ നിന്ന് nlogn ലേക്ക് പോകുമ്പോൾ സാധ്യമായ ഇൻപുട്ട് സൈസിൽ വളരെ വലിയ വ്യത്യാസം വരുന്നതും കാണാം ഇന്ന് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായ ആയ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കും ഇവിടെ ആദ്യത്തെ കാര്യം ഇൻപൂട്ടിൻറെ വലിപ്പമാണ് ഒരു അൽഗോരിതത്തിന്റെ റണ്ണിങ് ടൈം ഇന്പുട്ട് വലിപ്പത്തിനെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് റണ്ണിംഗ് ടൈമിംഗ് ഇൻപുട്ട് വലുതുമായ n ന്റെ ഒരു ഫങ്ക്ഷൻ ആയ t ഉപയോഗിച്ച് എഴുതുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം സൈസ് n ആയ എല്ലാ ഇൻപുട്ടുകളും ഒരേ റണ്ണിങ് ടൈം തന്നെ കാണിക്കണം എന്നില്ല അതിനാൽ നമ്മൾ ഇവിടെ വേർസ്റ് കേസ് എസ്റ്റിമേറ്റ് എന്ന ഒരു അളവുകോലാണ് ഉപയോഗിക്കുന്നത് ഇതിനുള്ള വിശദീകരണം പിന്നീട് നൽകുന്നതാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നതിനു മുമ്പ് എന്താണ് യഥാർത്ഥത്തിൽ തന്നിരിക്കുന്ന ഒരു പ്രോബ്ലത്തിൻറെ ഇൻപുട് സൈസ് എന്നുള്ളത് നോക്കാം ഇൻപുട്ടുകൾ എഴുതുവാൻ ആവശ്യമായ മെമ്മറി അടിസ്ഥാനമാക്കി നമുക്ക് അതിന്റെ സൈസ് പറയാവുന്നതാണ് ഉദാഹരണത്തിന് ഒരു ഒരു അറയിൽ ഉള്ള എലെമെന്റുകൾ സോർട്ട് ചെയ്യുന്ന പ്രോബ്ലം ആണെങ്കിൽ ഇതിൽ നമുക്ക് അതിലെ എല്ലാ എലെമെന്റുകളെയും പുനക്രമീകരിക്കേണ്ടി വരും സ്വാഭാവികമായും അറയുടെ സൈസ് ആയിരിക്കും ഈ പ്രോബ്ലത്തിന്റെ ഇൻപുട് സൈസ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പുനക്രമീകരണങ്ങൾ ഉള്ളതോ തൂക്കത്തിന്റെയോ സാന്ദ്രതയുടെയോ അടിസ്ഥാനത്തിൽ ഏറ്റവും കാര്യക്ഷമമായ ആയ രീതിയിൽ ഒരു കണ്ടെയ്നറിൽ വസ്തുക്കൾ ലോഡ് ചെയ്യുന്ന പ്രോബ്ലം ആണെങ്കിൽ ഇതിൽ വസ്തുക്കളുടെ എണ്ണം ആയിരിക്കും ഇൻപുട്ട് സൈസ് ആയിട്ട് പരിഗണിക്കുന്നത് മുൻപത്തെ ക്ലാസുകളിൽ ഒരു എയർ ട്രാവൽ പ്രോബ്ലം നമ്മൾ കണ്ടു സഞ്ചരിക്കേണ്ട സിറ്റി കളെയും അതിന് ബന്ധിച്ചിരിക്കുന്നു പാതകളെയും നമ്മൾ ഒരു ഗ്രാഫ് ആയി ചിത്രീകരിച്ചു ഈ പ്രോബ്ലത്തിൽ സിറ്റികളുടെയും ഫ്ലൈറ്റ്കളുടെയും എണ്ണത്തിന് മതിയായ സ്വാധീനമുണ്ട് എന്നും നമ്മൾ പറഞ്ഞു ഇത് ഏതൊരു ഗ്രാഫിന്റെയും പൊതുവായുള്ള സ്വഭാവമാണ് അതായത് നമുക്കൊരു ഗ്രാഫ് ഉണ്ടെങ്കിൽ അതിലെ നോട്കളുടെ എണ്ണവും എഡ്ജ്കളുടെ എണ്ണവും അതിൻറെ ഇൻപുട്ട് സൈസിനെ തീരുമാനിക്കുന്നു നമ്മൾ ഇൻപുട്ട് സൈസ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഭാഗം പ്രോബ്ളങ്ങളുണ്ട് അത് നമ്പറുകൾ ഉൾപ്പെടുന്നവയാണ് ഉദാഹരണത്തിന് ഇന്ന് തന്നിരിക്കുന്ന ഒരു സംഖ്യ പ്രൈം ആണോ അല്ലയോ എന്ന് നോക്കുന്ന ഒരു അൽഗോരിതം അതിൽ ഇൻപുട്ട് സൈസ് എന്തായിരിക്കും ഉദാഹരണത്തിന് ഈ അൽഗോരിതത്തിന്റെ ഇൻപുട്ടുകൾ 5003 500003 എന്നിങ്ങനെയുള്ള സംഖ്യകൾ ആണെന്ന് വിചാരിക്കുക 500003 എന്നത് 5003 ന്റെ ഏകദേശം പത്ത് മടങ്ങാണ് അതുകൊണ്ടുതന്നെ ഇതിന് ആവശ്യമായ സമയം ഏകദേശം 10 മടങ്ങിനോട് ആനുപാതികമാണ് എന്ന് നമുക്ക് പറയാം എന്നാൽ ഇവിടെ സൈസ് എങ്ങനെയായിരിക്കും പരിഗണിക്കുക നമ്മൾ സ്കൂളുകളിൽ ചെയ്യുന്ന കണക്കിൽ സംഖ്യയുടെ വലുപ്പത്തിന് പ്രാധാന്യം കൊടുക്കാറില്ല ആ സംഖ്യയിലെ എത്ര അക്കങ്ങൾ ഉണ്ട് എന്നതിന് അനുസരിച്ച് ആയിരിക്കും ആ കണക്കിന് എടുക്കുന്ന സമയം നമ്മൾ കോളങ്ങൾ തിരിച്ച് സംഖ്യകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുക ഹരിക്കുകയോ ചെയ്യുമ്പോഴും എത്ര അക്കങ്ങൾ സംഖ്യയിൽ ഉണ്ട് എന്നതിനെ ആശ്രയിച്ച് എത്ര കോളങ്ങൾ വേണ്ടിവരുമെന്ന് തീരുമാനിക്കപ്പെടുന്നു അതായത് സംഖ്യയിലെ അക്കങ്ങളുടെ എണ്ണം ആണ് ഇവിടെ പ്രസക്തം എന്നാൽ അക്കങ്ങളുടെ എണ്ണം എന്നത് log നു സമാനമാണ് നമുക്ക് ബേസ് 10 ആയിട്ടുള്ള ഉള്ള ഒരു ആറക്ക സംഖ്യ ഉണ്ടെങ്കിൽ അതിൻറെ log 5 ആയിരിക്കും അതേപോലെ log 6 ആണെങ്കിൽ അതൊരു 7 അക്ക സംഖ്യ ആയിരിക്കും അതായത് അക്കങ്ങളുടെ എണ്ണം log നു ആനുപാതികമാണ് അതുകൊണ്ടുതന്നെ സംഖ്യയുടെ log നമുക്ക് ഇൻപുട്ട് സൈസ് ആയി പരിഗണിക്കാവുന്നതാണ് അതിനാൽ സംഖ്യയുടെ വലുപ്പമായിരിക്കില്ല ഇവിടെ ഇൻപുട്ട് സൈസ് പകരം സംഖ്യയിൽ എത്ര അക്കങ്ങൾ ഉണ്ട് എന്നതായിരിക്കും ഇവിടുത്തെ മറ്റൊരു കാര്യം ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ കോൺസ്റ്റണ്ടുകളെ പരിഗണിക്കുന്നില്ല എന്നതാണ് ഇവിടെ ഫംഗ്ഷനുകൾ ഇൻപുട്ടിന്റെ വലുപ്പത്തിനനുസരിച്ച് n സ്ക്വയർ n ക്യൂബ് എന്നിങ്ങനെയാണ് കണക്കാക്കുന്നത് ഇതിനുള്ള ഒരു വിശദീകരണം പ്രാഥമികമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു വ്യക്തത കുറവുണ്ട് ഉണ്ട് അല്ലെങ്കിൽ അവ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നതാണ് നമുക്ക് ഒരുദാഹരണം നോക്കാം പ്രാഥമികമായ ഓപ്പറേഷനുകൾ ആയി നമ്മൾ പരിഗണിക്കുന്നത് രണ്ട് വേരിയബിളുകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതും അതുമല്ലെങ്കിൽ ഒരു വേരിയബ്ളിലെ വാല്യൂ മറ്റൊരു വേരിയബിളിലേക് അസൈൻ ചെയ്യുന്നതും ആവാം നമ്മൾ x y എന്നീ രണ്ടു വേരിയബിളുകളിലെ വാല്യു പരസ്പരം മാറ്റുന്നു എന്ന് വിചാരിക്കാം ഇതിനായി നമുക്കൊരു ഒരു താൽക്കാലിക വേരിയബിൾ ആവശ്യമാണ് ആണ് x ലെ വാല്യൂ താൽക്കാലിക വേരിയബിളിലേക്ക് മാറ്റുന്നു അതിനുശേഷം y ലെ വാല്യു x ലേക്ക് മാറ്റുന്നു പിന്നീട് താൽക്കാലിക വേരിയബിളിലെ വാല്യൂ x ലേക്ക് മാറ്റുന്നു ഇവിടെ മൂന്ന് അസൈൻമെൻറ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട് എന്നാൽ നമ്മൾ സ്വാപ്പിങ്ങിനെ അതായത് വാല്യൂ കൈമാറ്റത്തിനെ ഒരു പ്രാഥമിക ഓപ്പറേഷൻ ആയി പരിഗണിച്ചാൽ അസൈൻമെൻറ് ഒരു പ്രാഥമിക ഓപ്പറേഷൻ ആയി പരിഗണിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന 3 ഓപ്പറേഷനുകൾ ഒരു ഓപ്പറേഷൻ ആയി ചുരുങ്ങുന്നു അതായത് ഇവിടെ മൂന്ന് എണ്ണത്തിന്റെ വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള മൂന്ന് രണ്ട് ഇങ്ങനെയുള്ള കുറവുകൾ കണക്കാക്കാൻ നിൽക്കാതെ നമ്മൾ സാധാരണരീതിയിൽ ഇതിൽ കോൺസ്റ്റണ്ടുകൾ പരിഗണിക്കാതിരിക്കുക പതിവ് അതിനാലാണ് നമ്മൾ ഇൻപുട്ടിന്റെ വലുപ്പത്തിനെ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് വേർസ്റ്റു കേസ് എന്ന സങ്കല്പത്തിലേക്ക് തിരിച്ചുപോകാം നമ്മൾ പരിഗണിക്കുന്ന n വലിപ്പത്തിലുള്ള ഇൻപുട്ടുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് സോർട്ട് ചെയ്യാത്ത ഒരു അറയിൽ നിന്ന് k എന്ന വാല്യു കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു അൽഗോരിതം നോക്കുക അറേ സോർട്ട് ചെയ്യാത്തതിനാൽ k അതിനുള്ളിൽ എവിടെ വേണമെങ്കിലും ആകാം അതിനാൽ തന്നിരിക്കുന്ന അറേ ആദ്യാവസാനം നോക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട് അതിന്റെ ഇൻഡക്സ് i എന്നത് 0 ആക്കികൊണ്ട് നമ്മൾ സെർച്ച് ആരംഭിക്കുന്നു നമുക്ക് ആവശ്യമുള്ള എലമെന്റ് കിട്ടുന്നതുവരെ ഈ ലൂപ്പ് ഒരു പൊസിഷനിൽ നിന്ന് തൊട്ടടുത്ത പൊസിഷനിലേക്ക് ഇൻഡക്സ് മാറ്റി സെർച്ച് ചെയ്തു നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ രണ്ടു വിധത്തിൽ ഈ ഗ്രൂപ്പിൽ നിന്നും പുറത്തു കടക്കാം ആദ്യത്തേത് നമുക്ക് ആവശ്യമുള്ള എലമെന്റ് കിട്ടിയതിനുശേഷം അങ്ങനെയാണെങ്കിൽ i യുടെ വാല്യു n നേക്കാൾ ചെറുതായിരിക്കും രണ്ടാമതായി ആ എലമെന്റ് അറയിൽ ഇല്ലാതിരിക്കുന്ന സാഹചര്യം അപ്പോൾ i യുടെ വാല്യൂ n ആയിരിക്കും അതിനാൽ നമ്മൾ i എത്രയാണ് എന്ന് നോക്കുന്നു അത് n നേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് k കണ്ടുപിടിച്ചു എന്നു മനസ്സിലാക്കാം അതല്ല i യുടെ വാല്യൂ n ആണെങ്കിൽ k കണ്ടുപിടിച്ച ഇല്ല എന്നും അർത്ഥമാകുന്നു വളരെ ലളിതമായ ഒരു അൽഗോരിതമാണിത് ഇതിന് ഒരു ബോട്ടിൽ നെക്ക് ഉണ്ട് അത് ഈ ലൂപ്പ് ആണ് ഇതിനു n പ്രാവശ്യം പ്രവർത്തിക്കാൻ കഴിയും എപ്പോഴാണോ ഇത് n പ്രാവശ്യം പ്രവർത്തിക്കുന്നത് അതാണ് ഈ അൽഗോരിതത്തിന്റെ വേർസ്റ്റ് കേസ് ഈയൊരു സാഹചര്യത്തിൽ വേർസ്റ്റ് കേസ് അൽഗോരിതം അരയുടെ അവസാന എലമെന്റ് വരെ നോക്കേണ്ടതാണ് ഒന്നുകിൽ k അവസാനത്തെ എലമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ k ഇല്ലാതിരിക്കുകയോ ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതിനെ ഒരു വേസ്റ്റ് കേസ് ഇൻപുട്ട് ആയി പരിഗണിക്കാവുന്നതാണ് ഒരു അൽഗോരിതം നോക്കി അതിനെ മാറ്റിയെഴുതി ഏത് ഇൻപുട്ട് ആണ് ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനമാണ് ഈ ഒരു ലളിതമായ അൽഗോരിതത്തിൽ അറയിൽ ഇല്ലാത്ത ഒരു k ഇൻപുട്ട് ആയി കൊടുക്കുമ്പോഴാണ് ഈ ലൂപ്പ് മുഴുവനും എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നു പറയുവാൻ സാധിക്കും ഇവിടെ അതിനാൽ തന്നെ വേസ്റ്റ് കേസ് എന്നത് അറയുടെ സൈസ് ആയ n നെ ആശ്രയിച്ചിരിക്കുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം വേസ്റ്റ് കേസ് കണ്ടുപിടിക്കാൻ നമ്മൾ അൽഗോരിതത്തെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അൽഗോരിതം എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ നമുക്ക് വേസ്റ്റ് കേസ് കണ്ടുപിടിക്കാൻ സാധ്യമല്ല വ്യത്യസ്ത അൽഗോരിതങ്ങൾക്ക് അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ വേസ്റ്റ് കേസുകൾ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അതായത് വേർസ്റ്റ് കേസ് എന്നത് അൽഗോരിതത്തിന്റെതന്നെ ഒരു ഫങ്ക്ഷനാണ് ഇനി നമുക്ക് മറ്റുതരത്തിലുള്ള അളവുകളിലേക്ക് നോക്കാം വേസ്റ്റ് കേസ് കഴിഞ്ഞാൽ നമുക്കുള്ളത് ആവറേജ് കേസ് ആണ് ഇതിനായി സാധ്യമായ എല്ലാ ഇൻപുട്ട്കളും നോക്കി അവയെടുക്കുന്ന സമയത്തിന്റെ ആവറേജ് കണ്ടുപിടിക്കണം എന്നാൽ എല്ലാ ഇൻപുട്ട്കളും കണ്ടുപിടിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് അതിനാൽ വളരെ ആകർഷകമായി തോന്നാമെങ്കിലും ആവറേജ് കേസ് കണ്ടുപിടിക്കുക എന്നത് അത്ര എളുപ്പമല്ല ഉദാഹരണത്തിന് എയർലൈൻ യാത്രയുടെ പ്രോബ്ലം ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ സാധ്യമായ എല്ലാ പാതകളും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഇത് കണ്ടുപിടിക്കാതെ ആവറേജ് കേസ് കണക്കാക്കുവാൻ സാധ്യമല്ല കൂടാതെ പല രീതിയിലുള്ള ഇൻപുട്ട്കളുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ല ഒരു അൽഗോരിതത്തിനെ പ്രായോഗികമായ രീതിയിൽ അതിൻറെ കാര്യങ്ങൾ നോക്കിയാൽ ആവറേജ് കേസ് ആയിരിക്കും കൂടുതൽ പ്രാവർത്തികമായത് എന്നിരുന്നാലും ഇൻപുട്ടിന്റെ പ്രോബബിലിറ്റിയിൽ അടിസ്ഥാനമാക്കി ഈ ആവറേജ് കേസ് കണ്ടുപിടിക്കുന്നത് വളരെ ശ്രമകരമാണ് ചുരുക്കിപ്പറഞ്ഞാൽ ആവറേജ് കേസ് കണ്ടുപിടിക്കുക എന്നത് ഒട്ടും എളുപ്പമല്ലാത്തതിനാൽ അത്ര ശരിയായിട്ടുള്ളത് അല്ല എങ്കിലും നമ്മൾ വേസ്റ്റ് കേസ് ആണ് മിക്കവാറും പരിഗണിക്കുന്നത് വളരെ ചുരുക്കം സാഹചര്യങ്ങൾ മാത്രമേ നമുക്ക് ആവറേജ് കേസ് കിട്ടുകയുള്ളൂ ഇവിടെ ഗുണകരമായ ഒരു കാര്യം നമുക്ക് വേസ്റ്റ് കേസിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന അൽഗോരിതം ഉണ്ടെങ്കിൽ അതിൽനിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ഈ അൽഗോരിതം എല്ലാ കേസുകളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കും ഒരു അൽഗോരിതത്തിന് വളരെ മോശമായ ഒരു വേസ്റ്റ് കേസ് അപ്പർ ബൌണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് എപ്പോഴൊക്കെയാണ് ആണ് ഈ സാഹചര്യം ഉണ്ടാകുന്നത് അത് ഏതൊക്കെ തരത്തിലുള്ള ഇൻപുട്ടിനാണ് ഇങ്ങനെ ഉണ്ടാവുക ഏതൊക്കെ പ്രവർത്തനങ്ങൾ ലഘൂകരിച്ചാൽ നമുക്ക് നമുക്ക് ഈ വേസ്റ്റ് കേസുകൾ ഒഴിവാക്കുവാൻ സാധിക്കും മുതായ്വായാണ് നമ്മൾ ശ്രെധിക്കേണ്ട കാര്യങ്ങൾ വേസ്റ്റ് കേസ് അനാലിസിസ് എല്ലാ അർത്ഥത്തിലും ഒന്നും ശരിയായ രീതിയല്ല എന്നിരുന്നാലും ഗണിതശാസ്ത്രപരമായും പ്രായോഗികമായും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണിത് അതിനാലാണ് പല സാഹചര്യങ്ങളിലും മറ്റുള്ളവയെ അപേക്ഷിച്ചു ഒരു അളവുകോലായി വേസ്റ്റ് കേസ് അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നത്